എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിനെക്കുറിച്ചുള്ള ആദ്യ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഗണിതശാസ്ത്ര വകുപ്പിലെ ജിതേന്ദ്ര കുമാറാണ് ഇന്ന് വേരിയബിൾ ഒന്നിന്റെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് റോളിന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് Roll's theorem നമ്മൾ ചർച്ച ചെയ്യും ഇവയാണ് ഇന്ന് നാം ഉൾക്കൊള്ളുന്നത് റോൾ സിദ്ധാന്തത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രമേയമായതിനാൽ വിശദമായ തെളിവുകളിലൂടെയും നമ്മൾ പോകും കാരണം ഇത് മറ്റ് പ്രഭാഷണങ്ങളിലെ മറ്റ് ഫലങ്ങൾക്കും പിന്നീട് ചില ഉദാഹരണങ്ങൾക്കും ഉപയോഗിക്കും അപ്പോൾ റോളിന്റെ സിദ്ധാന്തം എന്താണ് ഒരൊറ്റ വേരിയബിളിന്റെ എഫ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ a b കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിൽ a b ഡിഫറെന്ഷ്യബിളും ആണെങ്കിൽ റോളിന്റെ സിദ്ധാന്തം ഉപയോഗിക്കാം കൂടാതെ ഒരു നിബന്ധന കൂടി ഉണ്ട് അത് a ലെ ഫംഗ്ഷൻ മൂല്യം b പോയിന്റിലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണെന്ന് പറയുന്നു ഫംഗ്ഷൻ ഒരേ മൂല്യമെടുക്കുന്ന രണ്ട് അവസാന പോയിന്റുകൾ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഇന്റെർവെൽ a b യിൽ ഒരു സംഖ്യ f ' 0 നിലവിലുണ്ടെന്ന് സിദ്ധാന്തം പറയുന്നു അതായത് ടാൻജെന്റിന്റെ ചരിവ് 0 ആയിരിക്കുന്ന ഒരു പോയിന്റ് c ഉണ്ടാകും നമ്മൾ ജ്യാമിതീയ വ്യാഖ്യാനത്തിലൂടെ കടന്നുപോകുന്നു ഈ x അക്ഷത്തിലും y അക്ഷത്തിലും പ്ലോട്ട് ചെയ്തിട്ടുള്ള ഫങ്ക്ഷനാണിതെന്ന് നമുക്ക് പരിഗണിക്കാം ഇത് ഒരു പോയിന്റാണ് ഈ ഘട്ടത്തിലെ ഫംഗ്ഷൻ മൂല്യം ഇവിടെയുണ്ട് ഫംഗ്ഷൻ b യിൽ എടുക്കുന്ന അതേ മൂല്യം എല്ലായിടത്തും പ്രവർത്തനം കണ്ടിന്യൂവസും ഡിഫറെന്ഷ്യബിളും ആണ് അപ്പോൾ ഈ സിദ്ധാന്തം പറയുന്നത് ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ ടാൻജെന്റ് എക്സ് ആക്സിസിന് സമാന്തരമായിരിക്കും ടാൻജെന്റിന്റെ ചരിവ് 0 ആണ് ഇത് x അക്ഷത്തിന് സമാന്തരമാണ് ഈ a യുടെ അടുത്തായി എവിടെയെങ്കിലും ഒരു ബിന്ദു ഉണ്ടെന്ന് വ്യക്തമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും ഇവിടെ ടാൻജെന്റ് x അക്ഷത്തിന് സമാന്തരമാണ് ഈ അവസ്ഥയിൽ കൂടുതൽ പോയിന്റുകളുണ്ട് ഇവിടെ x അക്ഷത്തിന് സമാന്തരമായി ടാൻജെന്റ് കൂടാതെ x അക്ഷത്തിന് സമാന്തരമായി ടാൻജെന്റ് ഉള്ള മറ്റൊരു പോയിന്റുണ്ട് പക്ഷേ തിയറം പറയുന്നത് കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും ടാൻജെന്റ് x അക്ഷത്തിന് സമാന്തരമായിരിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ x അക്ഷത്തിന് സമാന്തരമായി ടാൻജെന്റ് ഉള്ള ഒന്നിലധികം പോയിന്റുകൾ നമുക്ക് ലഭിക്കുന്നു നമ്മൾ കടന്നുപോകുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ലളിതമായ തെളിവ് നമുക്ക് പടിപടിയായി പോകാം ഫംഗ്ഷൻ പരമാവധി മിനിമം മൂല്യം എടുക്കുന്നുവെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ ഇന്റെർവെല്ലിൽ അവയെ വലിയ എം പരമാവധി ചെറുത് മിനിമം എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു a b ഇത് എക്സ്ട്രീം വാല്യൂ സിദ്ധാന്തം കാരണം ഉറപ്പുനൽകുന്നു കാരണം ഫങ്ക്ഷൻ ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ കണ്ടിന്യൂവസ് ആയി ഈ ഇന്റെർവെല്ലിൽ ഒരു ഘട്ടത്തിൽ പരമാവധി കുറഞ്ഞത് വരെ എത്തും M m ആയിരിക്കുമ്പോൾ ഇനിപ്പറയുന്ന സാഹചര്യത്തെ ഒരു പ്രത്യേക സാഹചര്യമായി കണക്കാക്കുന്നു പരമാവധി മൂല്യം മിനിമം മൂല്യത്തിന് തുല്യമാണ് ഇപ്പോൾ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുക തുടർന്ന് ഫംഗ്ഷന് പരമാവധി ഉള്ളതും കുറഞ്ഞ മൂല്യവും തുല്യമാണ് ഈ സാഹചര്യത്തിൽ വ്യക്തമായി ഫംഗ്ഷൻ മൂല്യത്തിൽ മാറ്റമൊന്നുമില്ല അതിനാൽ ഏറ്റവും കുറഞ്ഞ മൂല്യം പരമാവധി മൂല്യത്തിന് തുല്യമാണ് അടിസ്ഥാനപരമായി നമ്മൾ f m M പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സ്ഥിരമായ ഫങ്ക്ഷനാണ് ഏറ്റവും കുറഞ്ഞ മൂല്യം പരമാവധി മൂല്യത്തിന് തുല്യമാകുന്ന സാഹചര്യമാണിത് ഈ പ്രത്യേക സാഹചര്യത്തിൽ f എന്നത് സ്ഥിരമായ ഫങ്ക്ഷനാണ് കൂടാതെ f എന്നത് സ്ഥിരമായ ഫങ്ക്ഷനായതിനാൽ സ്വാഭാവികമായും നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുന്ന ഏത് പോയിന്റും 0 ആയിരിക്കും M മീ പരമാവധി ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണ് ഇപ്പോൾ ഫംഗ്ഷന്റെ പരമാവധി മൂല്യം ഫംഗ്ഷന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിന് തുല്യമല്ലാത്ത രണ്ടാമത്തെ കേസ് ഈ സാഹചര്യത്തിൽ നമ്മൾ മൂന്ന് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കേസുകൾ വീണ്ടും പരിഗണിക്കും ആദ്യത്തേത് ഈ അവസ്ഥയിലെ പരമാവധി മൂല്യം a b എന്നിവയിലെ ഫംഗ്ഷൻ മൂല്യത്തേക്കാൾ വ്യത്യസ്തമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം സിദ്ധാന്തത്തിന്റെ അനുമാനങ്ങൾ അനുസരിച്ച് a b എന്നിവയിലെ പ്രവർത്തന മൂല്യം തുല്യമാണ് ഫംഗ്ഷന്റെ പരമാവധി മൂല്യം a b എന്നിവയിലെ ഫംഗ്ഷൻ മൂല്യത്തേക്കാൾ വ്യത്യസ്തമാണെന്ന് ഇവിടെ നമ്മൾ അനുമാനിക്കുന്നു മിനിമം മൂല്യം എടുക്കുമ്പോൾ രണ്ടാമത്തെ കേസ് a b എന്നിവയിലെ ഫംഗ്ഷൻ മൂല്യത്തേക്കാളും മൂന്നാമത്തെ സാഹചര്യം ചില ഫംഗ്ഷനുകൾക്ക് വ്യത്യസ്തമായിരിക്കും ഈ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ഓരോ കേസിലും ലോക്കൽ മിനിമം അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം എന്ന് ഞാൻ പറയും ഇത് ഇവിടെയുണ്ട് ഇത് a b എന്നിവയിലെ തുല്യ മൂല്യങ്ങളേക്കാൾ വ്യത്യസ്തമാണ് ഇവിടെയും ലോക്കലും ഈ രണ്ട് ലോക്കൽ മാക്സിമുകളും a b എന്നിവയിലെ തുല്യ മൂല്യത്തേക്കാൾ വ്യത്യസ്തമാണ് ഈ കേസിൽ രണ്ടും വ്യത്യസ്തമാണ് രണ്ട് സാഹചര്യങ്ങളിലും ഫംഗ്ഷന്റെ പരമാവധി മൂല്യം a b എന്നിവയിലെ f ന്റെ തുല്യ മൂല്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കരുതുക എം വ്യത്യസ്തമാണ് വലിയ എം പരമാവധി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ M ഉം വ്യത്യസ്തമല്ലെങ്കിൽ ചെറിയ m വ്യത്യസ്തമായിരിക്കണം അവയിൽ ഒരെണ്ണമെങ്കിലും വ്യത്യസ്തമായിരിക്കും കാരണം M ചെറിയ m ന് തുല്യമല്ല ഫംഗ്ഷൻ ഈ മൂല്യം M ഒരു ഘട്ടത്തിൽ എടുക്കുന്നുവെന്ന് നമ്മൾ എടുക്കുന്നു f M ഫംഗ്ഷന് ഈ ലോക്കൽ മാക്സിമം c പോയിന്റിൽ ഉണ്ട് ഈ f ലോക്കൽ മാക്സിമം ആണെങ്കിൽ നമുക്ക് f c Δx f ഉണ്ട് f c Δx എന്ന സാഹചര്യം പരിഗണിക്കുക ഇവിടെ ഈ പോയിന്റ് c Δ x c യുടെ അടുത്താണ് ഈ Δ x 0 ന് അടുത്താണെന്ന് കരുതുക f എന്നത് ഫംഗ്ഷന്റെ പരമാവധി മൂല്യമായതിനാൽ f c Δx ഉം ഈ വ്യത്യാസവും f c Δx ഈ f നേക്കാൾ ചെറുതായിരിക്കും കാരണം f ലോക്കൽ മാക്സിമം ആണ് ഈ സാഹചര്യത്തിൽ അത്തരമൊരു Δx തീർച്ചയായും ഉണ്ടാകും കാരണം f പരമാവധി മൂല്യമാണ് ഇവിടെ ഈ പദപ്രയോഗം f c Δx f 0 ന് തുല്യമായിരിക്കും ഈ Δx പോസിറ്റീവ് ആണോ എന്ന് അല്ലെങ്കിൽ Δx നെഗറ്റീവ് ആണ് അതിനർത്ഥം ഈ പോയിന്റിനടുത്തായി നിങ്ങൾ എടുക്കുന്ന ഏത് പോയിന്റും c ഇവിടെ ഈ വ്യത്യാസം f c Δx f ≤ 0 ഇപ്പോൾ ഞാൻ ഈ പദപ്രയോഗത്തെ Δx കൊണ്ട് ഹരിച്ചാൽ ആദ്യ സന്ദർഭത്തിൽ ഞാൻ Δx പോസിറ്റീവ് ആയി എടുക്കുകയാണെങ്കിൽ ഈ പദപ്രയോഗത്തിന്റെ അടയാളം മാറില്ല കൂടാതെ Δx പോസിറ്റീവ് ആണെങ്കിൽ അത് 0 ന് തുല്യമായി തുടരും മറുവശത്ത് ഞാൻ Δx നെ നെഗറ്റീവ് നമ്പറായി എടുക്കുകയാണെങ്കിൽ ഈ പദപ്രയോഗം ചിഹ്നത്തെ മാറ്റുകയും f c Δx f Δx കൊണ്ട് ഹരിച്ചാൽ 0 ന് തുല്യമാകുകയും ചെയ്യും ഞാൻ ഇവിടെ എടുത്തപ്പോൾ പോസിറ്റീവ് Δx 0 എന്ന പരിധിയും ഈ പദപ്രയോഗവും 0 ൽ താഴെയുമാണ് നിങ്ങൾ ഇതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് എഫ് ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡിഫറൻസിബിൾ ആയതിനാൽ ഇത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന് തുല്യമായിരിക്കും ഈ അസമത്വം ഇവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഡെറിവേറ്റീവ് 0 ന് തുല്യമായിരിക്കും മറുവശത്ത് നിങ്ങൾ ഇത് Δx കൊണ്ട് നെഗറ്റീവ് ആയി വിഭജിച്ച് പരിധി വീണ്ടും എടുക്കുമ്പോൾ ഇവിടെ സമാനമായ കേസ് ഫംഗ്ഷൻ വ്യത്യാസമുള്ളതിനാൽ ഇടത് ഡെറിവേറ്റീവും പോസിറ്റീവ് ആയിരിക്കും കാരണം ഈ അസമത്വം 0 ന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് f 0 ലഭിച്ചു എന്നാൽ അവ നമുക്ക് f 0 ആണ് ഈ രണ്ടിൽ നിന്ന് f 0 ആയിരിക്കണമെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു കാരണം ഇത് ഒരേ സമയം 0 ന് തുല്യമോ വലുതോ ആകരുത് f ' 0 ആയിരിക്കണം എന്നുള്ള സാദ്ധ്യത മാത്രമേയുള്ളൂ ഈ ഇന്റെർവെല്ലിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് ഈ രീതിയിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഓപ്പൺ ഇന്റെർവെല്ലിൽ c ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്നു വളരെ പ്രാധാന്യമുള്ള കുറച്ച് അഭിപ്രായങ്ങളുണ്ട് ഇവിടെ റോളിന്റെ സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തം പര്യാപ്തമാണ് പക്ഷേ നിഗമനത്തിന് അത് ആവശ്യമില്ല ഇത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് അടുത്ത ഇന്റെർവെല്ലിലെ a b ഫങ്ക്ഷൻ കണ്ടിന്യൂവസും ഓപ്പൺ ഇന്റെർവെല്ലിലെ a b ഡിഫറെന്ഷ്യബിളും f f ന് തുല്യമാണെന്ന് മൂന്നാമത്തെ വ്യവസ്ഥയുമുണ്ട് ഈ മൂന്ന് നിബന്ധനകളും തൃപ്തികരമാണെങ്കിൽ ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്ന ഒരു പോയിന്റ് സി നിലനിൽക്കും ഈ വ്യവസ്ഥകൾ മതിയായ അർത്ഥമാണ് ഇവിടെ ഈ മൂന്ന് വ്യവസ്ഥകളും സൂചിപ്പിക്കുന്നത് f 0 എന്നാണ് എന്നാൽ f 0 എന്നതിന് ചുറ്റുമുള്ള മറ്റൊരു വഴി ഫംഗ്ഷൻ കണ്ടിന്യൂവസും ഡിഫറെന്ഷ്യബിളും ആണെന്ന് സൂചിപ്പിക്കുന്നില്ല കൂടാതെ എ ബി എന്നീ ചില ഘട്ടങ്ങളിൽ ഈ തുല്യ മൂല്യങ്ങൾ നമ്മൾ എടുക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മൂന്ന് നിഗമനങ്ങളും നിറവേറ്റുകയാണെങ്കിൽ സിദ്ധാന്തം ഉറപ്പുനൽകുന്നു f 0 എന്നാണ് എന്നിരുന്നാലും പരികല്പന പാലിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമ്മൾ കാണാനിടയുള്ള നിഗമനത്തിലെത്തുകയോ അല്ലെങ്കിൽ എത്തിച്ചേരുകയോ ചെയ്യാം നമുക്ക് ഈ ഉദാഹരണം നോക്കാം ഈ ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂവസ് ആണെന്ന് കാണുകയാണെങ്കിൽ 1 ലെ ഫംഗ്ഷൻ മൂല്യം ഇവിടെ 1 ആണ് അതായത് നമുക്ക് നേരിട്ട് 1 വരെ ഫംഗ്ഷൻ നിർവചിക്കപ്പെടുന്നു f 1 ആണ് തുടർന്ന് നിങ്ങൾ ശരിയായ പരിധി എടുക്കുകയാണെങ്കിൽ f 1 0 ശരിയായ പരിധി Δ x → 0 എന്ന പരിധിയും f 1 Δ x - f അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് നേടാൻ പോകുന്നില്ല ഇവിടെ ഈ പദപ്രയോഗം f 1 Δ x Δ x → 0 എന്നിവയാണ് നമ്മൾ ഇവിടെ Δx പോസിറ്റീവ് എടുക്കുന്നു ഈ ഫംഗ്ഷന്റെ ശരിയായ പരിധി Δx 0 ഇത് കേവലം Δ x 0 എന്ന പരിധിയായിരിക്കും നമ്മൾ ഇവിടെ പോസിറ്റീവ് ആയി എടുക്കുന്ന x Δ x പോസിറ്റീവ് ആയതിനാൽ 1 Δ x നമ്മൾ ഇവിടെ നിന്ന് 3x 2 കണക്കാക്കും നിങ്ങൾക്ക് 3 ഉം x ഉം അർത്ഥമാക്കുന്നത് 1 Δ x ആർഗ്യുമെന്റും മൈനസ് 2 ഉം ആണ് ഇത് 3 - 2 1 ഇത് 1 ഉം f ന് തുല്യവുമാണ് ഈ കേസിൽ ഫങ്ക്ഷൻ സ്വാഭാവികമായും തുടരുന്നു നമ്മൾ വ്യത്യാസം പരിശോധിച്ചാൽ അതിനർത്ഥം ആദ്യം റൈറ്റ് ഡെറിവേറ്റീവ് f 1 0 വലത് ഡെറിവേറ്റീവ് എന്നാൽ പരിധി Δ x → 0 എന്നും Δ x പോസിറ്റീവ് എന്നും അർത്ഥമാക്കുന്നു f 1 Δ x മൈനസ് f Δ x കൊണ്ട് ഹരിച്ചാൽ ഇത് ഇവിടെ പോകില്ല ഈ സാഹചര്യത്തിൽ Δ x → 0 എന്ന പരിധി പോസിറ്റീവ് ആണ് ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത 3x 2 ൽ നിന്ന് 1 Δ x വീണ്ടും കണക്കാക്കും ഇത് 1 3Δ x വരുന്നു Δ x കൊണ്ട് ഹരിക്കുന്നു തുടർന്ന് ഇവിടെ മൈനസ് ഈ f 1 ആണ് ഇത് റദ്ദാക്കപ്പെടും തുടർന്ന് ഇവിടെ ഈ മൂല്യം 3 ഈ ഫംഗ്ഷന്റെ വലതുവശത്തെ ഡെറിവേറ്റീവ് 3 ആണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് f എന്ന നൊട്ടേഷനാണ് ഇവിടെ നിങ്ങൾ Δ x → 0 Δ x നെഗറ്റീവ് കണക്കുകൂട്ടിയാൽ ഇതിന് എന്ത് സംഭവിക്കും ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഈ f 1 Δ x Δ x എന്നിവ നെഗറ്റീവ് ആണ് x2 ൽ നിന്ന് കണക്കാക്കും ഇവിടെ നമുക്ക് Δ x 0 ഉണ്ടെന്നും ഇത് ഇതാണ് എന്നും അർത്ഥമാക്കുന്നു നമ്മൾ ഇത് വികസിപ്പിക്കുമ്പോൾ 1 Δx2 2Δx നിബന്ധനകൾ ഉണ്ടാകും അതിനാൽ 1 1 റദ്ദാക്കപ്പെടും കൂടാതെ ഈ 2Δ x ഉം Δ x കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 2 ഉം ബാക്കി പരിധി കാരണം 0 ലേക്ക് പോകുക ഇവിടെ ഡെറിവേറ്റീവ് 2 ആണെങ്കിൽ ഇടത് വശത്തെ ഡെറിവേറ്റീവ് 3 ഉം വലതുവശത്തെ ഡെറിവേറ്റീവ് 2 ഉം ആണ് ഈ കേസിൽ ഫംഗ്ഷൻ വേർതിരിക്കാനാവില്ല നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാനും പിന്നീട് ഈ ഘട്ടത്തിൽ 1 ഇവിടെ ഫംഗ്ഷൻ അതിന്റെ വ്യത്യാസത്തെ തകർക്കുന്നതായി നിങ്ങൾക്ക് കാണാം നമ്മൾ ഇപ്പോൾ കണ്ട വലതുവശത്തെ ഡെറിവേറ്റീവ് മൈനസ് ഇടത് വശത്തെ ഡെറിവേറ്റീവ് ആയതിനാൽ 2 ഉം വലതുവശത്ത് 3 ഉം ആയിരുന്നു ഇവിടെ ഫംഗ്ഷൻ വ്യത്യാസമില്ലാത്ത ഒരു പോയിന്റുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ താൽപ്പര്യമുണർത്തുന്നതെന്തെന്നാൽ എല്ലാ സിദ്ധാന്തങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ ഘട്ടത്തിൽ ഫങ്ക്ഷൻ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഇവിടെ ഒരു പോയിന്റ് 0 ഉണ്ട് ഈ x2 ൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീണ്ടും കണക്കുകൂട്ടാൻ കഴിയും ഒരു ഡെറിവേറ്റീവ് 2x ഉം x 0 ന് തുല്യവുമാണ് ഡെറിവേറ്റീവ് 0 ആകും ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ ടാൻജെന്റ് ഈ കേസിൽ x അക്ഷത്തിന് സമാന്തരമാണ് എന്നിരുന്നാലും ഇവിടെ ഫങ്ക്ഷൻ വേർതിരിക്കാനാവില്ല അനുമാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കൃത്യമായി ഫംഗ്ഷൻ നിഗമനത്തിലെത്താം അല്ലെങ്കിൽ വരില്ല ഈ സാഹചര്യത്തിൽ ഇത് നിഗമനത്തിലെത്തുന്നു പക്ഷേ ഇത് റോളിന്റെ സിദ്ധാന്തം മൂലമല്ല മറ്റൊരു ഉദാഹരണം എടുത്താൽ സമാനമായ സാഹചര്യത്തിൽ 1 എന്ന പോയിന്റിൽ ഫങ്ക്ഷന് ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ ഈ 0 നും 1 നും ഇടയിൽ ഒരു പോയിന്റും നമ്മൾക്ക് ലഭിക്കുന്നില്ല അവിടെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഏറ്റെടുക്കുന്നു ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്ന ഇന്റെർവെല്ലിലെ ഏത് ഘട്ടത്തിലും f ≠ 0 ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു മറ്റൊന്ന് ഫംഗ്ഷൻ വേർതിരിക്കാനാവാത്ത മുൻ ഉദാഹരണം ഇതും വേർതിരിക്കാനാവില്ല എന്നാൽ 1 ൽ f 0 ഡെറിവേറ്റീവ് അപ്രത്യക്ഷമാകുന്ന ഒരു പോയിന്റുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ഡെറിവേറ്റീവ് ഇന്റെർവെല്ലിലെ ഒരു ഘട്ടത്തിലും അപ്രത്യക്ഷമാകില്ല റോളിന്റെ സിദ്ധാന്തത്തിന്റെ ഈ മൂന്ന് സിദ്ധാന്തങ്ങളും മതിയായ വ്യവസ്ഥകളാണ് അവ ആവശ്യമായ വ്യവസ്ഥകളല്ല അത്തരം സാഹചര്യങ്ങളിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഓപ്പൺ ഇന്റെർവെല്ലിലെ a b ഒരു ഘട്ടമെങ്കിലും 0 മാകുമെന്ന് ഉറപ്പുനൽകുന്നു ഈ ഫംഗ്ഷനായി ക്ലോസ്ഡ് ഇന്റെർവെല്ലിലെ കണ്ടിന്യൂവിറ്റിയെ നാം കണ്ട കണ്ടിന്യൂവിറ്റിയുടെ അവസ്ഥ അനിവാര്യമാണെന്ന മറ്റൊരു പരാമർശം അത് പാലിച്ചില്ലെങ്കിൽ അത്തരം c യുടെ നിലനിൽപ്പിന് സിദ്ധാന്തം ഉറപ്പുനൽകുന്നില്ലായിരിക്കാം ഇവിടെ f 0 ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് 0 1 ൽ കണ്ടിന്യൂവസും ഡിഫറെന്ഷ്യബിളും f f ആണെങ്കിൽ ഈ അവസ്ഥ ഡിഫറൻസബിലിറ്റി കണ്ടീഷൻ പാലിക്കുന്നു പക്ഷേ ഫംഗ്ഷൻ 1 ൽ കണ്ടിന്യൂവസായിരിക്കില്ല കാരണം ഫംഗ്ഷൻ x 0 മുതൽ 1 വരെ x ആയതിനാൽ x എന്നത് 1 ന് തുല്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ജമ്പ് ഉണ്ട് x 1 ന് തുല്യമാണ് ഫംഗ്ഷൻ മൂല്യം 0 ആയി എടുക്കുന്നു അല്ലാത്തപക്ഷം ഇവിടെ x ആയി എടുക്കുന്നു ഓ ക്ഷമിക്കണം കണ്ടിന്യൂവസ് ആയി 1 ന് ഫംഗ്ഷൻ വ്യത്യാസമില്ല അല്ലാത്തപക്ഷം റോളിന്റെ സിദ്ധാന്തത്തിന്റെ മറ്റെല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നു ഈ 0 1 ഓപ്പൺ ഇന്റെർവൽ 0 നും 1 നും ഇടയിൽ എല്ലായിടത്തും ഡെറിവേറ്റീവ് 1 ആണെന്ന് നമ്മൾ വ്യക്തമായി കാണുന്നു ഈ ഇന്റെർവെല്ലിലെ ഏത് ഘട്ടത്തിലും x 0 മുതൽ 1 വരെ f ≠ 0 ഈ ഫംഗ്ഷനായി റോളിന്റെ സിദ്ധാന്തത്തിന്റെ പ്രയോഗക്ഷമതയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ചചെയ്യും കണ്ടിന്യൂവിറ്റിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഫങ്ക്ഷൻ കണ്ടിന്യൂവസ് ആയിരിക്കും കാരണം ഇത് f 2 ഉം f ഉം പോലെ ശരിയായ പരിധി എടുക്കുകയാണെങ്കിൽ f 1 0 Δx → 0 എന്ന പരിധിയും ഈ f 1Δx ഇതും x → 0 പോസിറ്റീവ് ഉം ആയിരിക്കും കാരണം നമ്മൾ ഇവിടെ ശരിയായ പരിധി എടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് 3 - 1Δx ആയിരിക്കും അതായത് ഇത് 2 Δx ആണ് Δx 0 ഇത് 2 ഉം മൂല്യം 1 ന് തുല്യവുമാണ് 0 മുതൽ 2 വരെയുള്ള ഇന്റെർവെല്ലിൽ ഫങ്ക്ഷൻ കണ്ടിന്യൂവസും കൂടാതെ ഡെറിവേറ്റീവ് നോക്കിയാൽ മുമ്പത്തെ കേസുമായി സാമ്യമുണ്ട് നിങ്ങൾ ശരിയായ ഡെറിവേറ്റീവ് കണക്കുകൂട്ടുകയാണെങ്കിൽ 1 0 അതിനർത്ഥം Δx 0 Δx പോസിറ്റീവ് ആണ് കാരണം ഞാൻ സംസാരിക്കുന്ന ശരിയായ പരിധി ഈ സാഹചര്യത്തിൽ നിങ്ങൾ വീണ്ടും എടുത്തു Δx 0 f 1 Δx എന്നിവ പരിമിതപ്പെടുത്തുക ഇവിടെ നമ്മൾ കണക്കാക്കിയ f 1 Δx ഇത് 2 Δx ഉം f വീണ്ടും 2 ഉം Δx കൊണ്ട് ഹരിക്കുന്നു ഈ പരിധി 1 ആയി വരും കാരണം ഇത് റദ്ദാക്കപ്പെടും തുടർന്ന് നിങ്ങൾക്ക് -1 ലഭിക്കും അവിടെ വലത് ഡെറിവേറ്റീവ് 1 ഉം ഇടത് ഡെറിവേറ്റീവ് f ഉം Δx → 0 Δx നെഗറ്റീവ് ആയി പരിമിതപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ f 1 Δx ഇവിടെ നിന്ന് കണക്കാക്കും 1 Δx2 1 - f ഇത് 2Δx ഇവിടെ നിങ്ങൾക്ക് 1 Δx2 2Δx ലഭിക്കും 1 Δx2 2Δx 1 - 2 ഇത് റദ്ദാക്കുകയും തുടർന്ന് ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും Δx → 0 ഇത് 2 ആയി വരും ഈ സാഹചര്യത്തിൽ ഇടത് ഡെറിവേറ്റീവ് 2 ഉം വലത് ഡെറിവേറ്റീവ് 1 ഉം ആണ് ഫംഗ്ഷൻ 1 പോയിന്റിൽ വ്യത്യാസമില്ല ഈ കേസിൽ റോളിന്റെ സിദ്ധാന്തം ബാധകമല്ല നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയാൽ ഇവിടെ വീണ്ടും 1 ൽ നമ്മൾ കണ്ട ഫംഗ്ഷൻ വ്യത്യസ്തമല്ലെന്ന് നിങ്ങൾ വീണ്ടും കാണുന്നു ഇത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ റോളിന്റെ സിദ്ധാന്തം ഉപയോഗിക്കുന്ന ഈ x13 7x3 5 0 എന്ന സമവാക്യത്തിന് 0 1 ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ 01 കൃത്യമായി ഒരു യഥാർത്ഥ റൂട്ട് ഉണ്ടെന്ന് കാണിക്കുന്നു ഈ സമവാക്യത്തിന് കൃത്യമായി ഒരു യഥാർത്ഥ റൂട്ട് ഉണ്ടെന്ന് കാണിക്കാൻ റോളിന്റെ സിദ്ധാന്തം ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു തരം അപ്ലിക്കേഷനാണ് ഇത് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയാൽ ഇവിടെ ഈ f ഫംഗ്ഷൻ x13 7x3 - 5 ന് 0 1 ൽ ഒന്നിൽ കൂടുതൽ യഥാർത്ഥ റൂട്ട് ഉണ്ടെന്ന് കരുതുക ഈ ഫംഗ്ഷന് f ഒന്നിൽ കൂടുതൽ യഥാർത്ഥ റൂട്ട് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇതിന് റൂട്ടിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റൂട്ട് എടുക്കാം ആൽഫയും ബീറ്റയും എന്ന് പറയാം നിങ്ങൾ രണ്ട് റൂട്ട് എടുത്തിട്ടുണ്ട് ഈ ആൽഫയും ബീറ്റയും റൂട്ട് ആയതിനാൽ f α 0 ആയിരിക്കും അതും f β ന് തുല്യമായിരിക്കും α β രണ്ടും റൂട്ടുകളായതിനാൽ ഫംഗ്ഷൻ 0 എന്നതിലും ആയിരിക്കും ഇവിടെ നമ്മൾ α β എന്നതിനേക്കാൾ ചെറുതാണെന്നും സ്വാഭാവികമായും ഇവ രണ്ടും 0 നും 1 നും ഇടയിലാണെന്നും നമ്മൾ അനുമാനിക്കുന്നു 0 1 എന്നിവ സമവാക്യത്തിന്റെ മൂലമല്ല അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇത് α β ഈ രണ്ട് റൂട്ടുകൾ കാരണം ഈ ഫംഗ്ഷന് രണ്ട് റൂട്ടുകളിലധികം ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഈ α β എന്നിവ 0 നും 1 നും ഇടയിലായിരിക്കും രണ്ടിനും ഇവിടെ പോസിറ്റീവ് സംഖ്യയുണ്ട് α β 1 ൽ താഴെ റോളിന്റെ സിദ്ധാന്തം എന്താണ് പറയുന്നത് ഈ ഇന്റെർവെല്ലിൽ നമ്മൾ റോളിന്റെ സിദ്ധാന്തം പ്രയോഗിച്ചാൽ α β നമ്മൾ പ്രയോഗിച്ചാൽ നമ്മൾ ഈ റോളിന്റെ സിദ്ധാന്തം ഇന്റെർവെല്ലിൽ പ്രയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ റോളിന്റെ സിദ്ധാന്തം ഒരു ബിന്ദു ഉണ്ടെന്ന് f 0 ആയിരിക്കും f 0 ആയിരിക്കുന്ന ഒരു പോയിന്റ് c ഉണ്ടാകും കാരണം ഫംഗ്ഷൻ ഇപ്പോൾ α β എന്നിവയിൽ തുല്യ മൂല്യം എടുക്കുന്നതിനാൽ ഫംഗ്ഷൻ ഡിഫറൻസിബിൾ ആണ് ഇത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് ഒരു പ്രശ്നവുമില്ല ഇത് സ്വാഭാവികമായും കണ്ടിന്യൂവസ് ആയതിനാൽ α β എന്നിവയിൽ ഒരേ മൂല്യം എടുക്കുന്നു ഈ ഇന്റെർവെല്ലിൽ നമ്മൾ പ്രയോഗിച്ചാൽ റോളിന്റെ സിദ്ധാന്തം ഇന്റെർവെല്ലിലെ ചില c ക്ക് f 0 നൽകും ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഈ f f 13c12 21c2 0 ചില ഇന്റെർവൽകളിൽ α β രണ്ടും പോസിറ്റീവ് സംഖ്യയാണെന്നും ഇപ്പോൾ c കാണുന്നത് ഇവിടെ പോസിറ്റീവ് ആണെന്നും ശ്രദ്ധിക്കുക ഇവിടെ ഈ പദപ്രയോഗം 13c12 21c2 ≠ 0 കാരണം ഇത് ഒരു പവർ 12 ആണ് ഇവിടെ ഇരട്ട സംഖ്യ c2 ഉം ഈ c പോസിറ്റീവ് ആണ് ഇത് ഒരു പോസിറ്റീവ് അളവാണ് ഇത് 0 ന് തുല്യമാകരുത് പക്ഷേ റോളിന്റെ സിദ്ധാന്തം അത് 0 ന് തുല്യമാകുമെന്ന് പറയുന്നു അതിനർത്ഥം ഫംഗ്ഷന് രണ്ടിൽ കൂടുതൽ യഥാർത്ഥ റൂട്ടുകളുണ്ടെന്ന അനുമാനമുണ്ട് ഒന്നിൽ കൂടുതൽ യഥാർത്ഥ റൂട്ടുകളെക്കുറിച്ചുള്ള നമ്മുടെ അനുമാനത്തിന് ഇത് വിരുദ്ധമാണ് പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ഒരു റൂട്ട് ഉണ്ടോ എന്നതാണ് ചോദ്യം കാരണം രണ്ട് റൂട്ടുകളിൽ കൂടുതൽ ഉണ്ടാകാൻ കഴിയില്ലെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഈ ഫംഗ്ഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൂല്യം ഇവിടെ എവിടെയോ 5 ആണ് നിങ്ങൾ ഈ 1 അവിടെ മറ്റേ അറ്റത്ത് വച്ചാൽ നമ്മൾക്ക് 3 ലഭിക്കും മൂല്യം 1 ന് 3 ആയിരിക്കും എങ്കിൽ ഇത് ഇവിടെ 1 ആണ് 1 ന് മൂല്യം 3 ഉം 0 മൂല്യം 5 ഉം ഫങ്ക്ഷൻ കണ്ടിന്യൂവസാണ് തീർച്ചയായും ഈ സ്ഥാനത്ത് എത്താൻ അത് റിയൽ ആക്സിസ് എവിടെയെങ്കിലും കടക്കും ഈ കേസിൽ ഒരു റൂട്ടിന്റെ അസ്തിത്വം തെളിയിക്കുന്നു ഇത് ഒരു റൂട്ടിന്റെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നു f 5 ഉം f 3 ഉം ആണ് ഇപ്പോൾ ഈ പ്രഭാഷണം തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റഫറൻസുകളുണ്ട് പിസ്കുനോവിന്റെ പുസ്തകം ഡിഫറൻഷ്യൽ ആന്റ് ഇന്റഗ്രൽ കാൽക്കുലസ് വാല്യം 1 ക്രെയിസിഗ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇവിടെ വീണ്ടും സംഗ്രഹിക്കുന്നു റോളിന്റെ സിദ്ധാന്തം പഠിച്ചു ഇത് എ ബി എന്നിവയിൽ ഒരേ മൂല്യമുള്ള ഫങ്ക്ഷൻ കണ്ടിന്യൂവസും ഡിഫറെന്ഷ്യബിളും ആണെങ്കിൽ ഓപ്പൺ ഇന്റെർവെല്ലിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് c ഉണ്ടാകും ഇവിടെ ഈ ഫംഗ്ഷന്റെ ടാൻജെന്റ് x അക്ഷത്തിന് സമാന്തരമായിരിക്കും ഇത് റോളിന്റെ സിദ്ധാന്തമാണ് ഇത് മീൻ വാല്യൂ സിദ്ധാന്തത്തിന്റെ ഒരു പ്രത്യേക കേസാണ് അത് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യും അടിസ്ഥാനപരമായി തുല്യ മൂല്യങ്ങൾ എന്നുള്ള ഈ അനുമാനം നീക്കംചെയ്യപ്പെടും തുടർന്ന് നമുക്ക് കൂടുതൽ പൊതുവായ ഫലങ്ങൾ ലഭിക്കും അടുത്ത പ്രഭാഷണത്തിന്റെ വിഷയം മീൻ വാല്യൂ സിദ്ധാന്തമാണ്